മറ്റ് ചില എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യും വിവിധ തരം എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ ഉണ്ട് അവയെ ടോപ്പ് ഡൌണ് എന്നും ബോട്ടം അപ് എന്നും തരം തിരിക്കാം അൽഗോരിതം മോഡലുകൾ വിദഗ്ദ്ധരുടെ അഭിപ്രായം അനലോജി വിജയിക്കാനുള്ള വില ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അവസാന ക്ലാസിൽ ഈ അവസാന മൂന്ന് വിദഗ്ദ്ധ അഭിപ്രായത്തെക്കുറിച്ചോ വിദഗ്ദ്ധരുടെ വിധിന്യായത്തെക്കുറിച്ചോ അനലോജി മിത്തോളജി വിജയിക്കാനുള്ള വിലയെക്കുറിച്ചും ചർച്ച ചെയ്തു അടിസ്ഥാനപരമായി ഈ നാലെണ്ണം പ്രോജക്റ്റ് കണക്കാക്കലിനുള്ള മറ്റൊരു വർഗ്ഗീകരണത്തെക്കുറിച്ചും ചർച്ചചെയ്തു ഇപ്പോൾ ടോപ്പ്ഡൌണ് ബോട്ടം അപ്പ് എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം തുടർന്ന് പ്രോജക്റ്റ് എസ്റ്റിമേറ്റിനായുള്ള അൽഗോരിതം മോഡലുകളെക്കുറിച്ച് പറയാം ചെയ്യേണ്ട എല്ലാ ജോലികളും തിരിച്ചറിയുന്ന ഒരു കണക്കാക്കൽ സാങ്കേതികതയാണ് ബോട്ട൦ അപ് എസ്റ്റിമേഷൻ അതിനാൽ നിർവഹിക്കേണ്ട എല്ലാ ജോലികളും ഇത് തിരിച്ചറിയുന്നു ഇത് വളരെയധികം സമയമെടുക്കുന്നു സമാന മുൻകാല പ്രോജക്റ്റുകളെക്കുറിച്ച് ഡാറ്റയില്ലാത്തപ്പോൾ ഇത് ഉപയോഗിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അനലോഗ് രീതി പോലെ നിങ്ങൾക്ക് സമാനമായ മുൻകാല പ്രോജക്റ്റുകൾ ഇല്ലാത്തപ്പോൾ ഇത് ഉപയോഗിക്കാം സമാന തരത്തിലുള്ള മുൻകാല പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ചെയ്ത സമാന തരത്തിലുള്ള പ്രോജക്ടുകൾ ഉള്ളപ്പോൾ ഇത് എപ്പോൾ അനുയോജ്യമാകും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അനലോജി രീതി തുടർന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ അനലോജി രീതി എന്നാൽ സമാന ഭൂതകാലത്തെക്കുറിച്ച് ഒരു ഡാറ്റയും ഇല്ലാത്തപ്പോൾ ബോട്ടം അപ്പ് രീതി ഉപയോഗിക്കുന്നു അപ്പോൾ ടോപ്പ് ഡൌൺ സമീപന൦ എന്താണ് പ്രോജക്റ്റ് കോസ്റ്റ് ഡ്രൈവറുകളെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ പ്രോജക്റ്റ് ഡാറ്റയെ അടിസ്ഥാനമാക്കി ഇത് മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റുകൾ നിർമ്മിക്കുന്നു ഈ മുൻ പ്രോജക്റ്റ് ഡാറ്റ ലഭ്യമാകുമ്പോൾ ടോപ്പ് ഡൌൺ രീതി ഉപയോഗിക്കുന്നു ഈ രീതി രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു മുൻകാല പ്രോജക്റ്റ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയും പ്രോജക്റ്റ് വിവിധ പ്രോജക്റ്റ് കോസ്റ്റ് ഡ്രൈവറുകളായും അതിനാൽ അവ നിർവഹിക്കേണ്ട ജോലികൾക്കിടയിൽ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് വിഭജിക്കണം നമുക്ക് ആദ്യം ബോട്ട൦ അപ്പ് എസ്റ്റിമേറ്റ് നോക്കാം എന്താണ് ഘട്ടങ്ങൾ ചുവടെ കണക്കാക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനിപ്പറയുന്നവയാണ് പ്രോജക്റ്റ് പ്രവർത്തനങ്ങൾ ചെറിയ ചെറിയ ഘടകങ്ങളായി വിഭജിക്കുക ഒബ്ജക്റ്റ് ഓറിയെന്റഡ് സമീപനത്തിലെന്നപോലെ താഴെ പറയുന്ന എസ്റ്റിമേറ്റ് അതിന്റെ പേര് നിർദ്ദേശിക്കുന്നതുപോലെ എടുക്കുക അതായത് ബോട്ടം അപ്പ് മെതടോലാജി ഇവിടെ സമാനമായി പ്രോജക്റ്റ് പ്രവർത്തനങ്ങളെ ചെറിയ ചെറിയ ഘടകങ്ങളായി വിഭജിക്കുന്നു തുടർന്ന് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ ഒരാൾ ചെയ്യേണ്ടതെന്താണെന്ന് അറിയുമ്പോൾ നിർത്തുക ഈ ബ്രേക്കിംഗ് പ്രക്രിയ എവിടെയാണ് അത് എപ്പോൾ നിർത്തണം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ എന്താണെന്ന് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ നിർത്തണം തുടർന്ന് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് നിങ്ങൾ കണക്കാക്കുന്നു പ്രോജക്റ്റുകളെ പ്രവർത്തനങ്ങളായി ചെറിയ പ്രവർത്തനങ്ങളായി വിഭജിച്ചതിന് ശേഷം ഓരോ ഉയർന്ന തലത്തിലും ഏറ്റവും താഴ്ന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് നിങ്ങൾ കണക്കാക്കുന്നു ഓരോ ഉയർന്ന തലത്തിലും നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് താഴ്ന്ന നിലകൾക്കുള്ള എസ്റ്റിമേറ്റുകൾ ചേർത്തുകൊണ്ട് അതിനാൽ ഓരോ ഉയർന്ന തലത്തിലും താഴത്തെ നിലകൾക്കുള്ള എസ്റ്റിമേറ്റുകൾ സംഗ്രഹിച്ച് നിങ്ങൾ എസ്റ്റിമേറ്റുകൾ കണക്കാക്കേണ്ടതുണ്ട് ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ബോട്ട൦ അപ്പ് സമീപനം നമുക്ക് ചർച്ച ചെയ്യാം ബോട്ട൦ അപ് എസ്റ്റിമേറ്റ് അൽഗോരിതം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റിനെക്കുറിച്ച് നമുക്ക് നോക്കാം വ്യത്യാസം ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞു ഇവിടെ ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റുകൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് ഉൽപാദിപ്പിക്കുക പരിശ്രമ ഡ്രൈവറുകൾ ഉപയോഗിച്ചുള്ള മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഡ്രൈവറുകൾ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് നിർമ്മിക്കുന്നതിന് ഇവിടെ ചില ഡ്രൈവറുകൾ ഉപയോഗിക്കണം എന്നിട്ട് വിവിധ ഘടകങ്ങളുടെ മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് അനുപാതങ്ങൾ വിതരണം ചെയ്യണം മൊത്തത്തിലുള്ള പ്രോജക്റ്റിനായി 100 ദിവസമെടുക്കുമെന്ന് കണക്കാക്കിയതായി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ മൊത്തത്തിലുള്ള പ്രോജക്റ്റിനെ ഉപ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളവയായി വിഭജിക്കാം രൂപകൽപ്പന കോഡിംഗ് ടെസ്റ്റിംഗ് തുടങ്ങിയവ മൊത്തം ദിവസങ്ങളിൽ 30 ശതമാനം രൂപകൽപ്പനയ്ക്ക് നൽകാമെന്നും 30 ശതമാനം കോഡിന് നൽകാമെന്നും 40 ശതമാനം പരിശോധനയ്ക്ക് നൽകുമെന്നും കണക്കാക്കിയിട്ടുണ്ട് 100 ദിവസത്തെ 30 ശതമാനം രൂപകൽപ്പനയ്ക്ക് 30 ദിവസങ്ങൾ മൊത്തം എസ്റ്റിമേറ്റിന്റെ 100 ദിവസം വീണ്ടും 30 ദിവസം വീണ്ടും കോഡിംഗിന് 30 ദിവസം മൊത്തം 40 ശതമാനം എന്നിങ്ങനെയുള്ള മൊത്തം എസ്റ്റിമേറ്റിന്റെ ആനുപാതികമായ അനുപാതം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ഇത് പരിശോധനയ്ക്ക് 40 ദിവസമാണെന്ന് കണക്കാക്കുന്നു അതിനാൽ ഈ രീതിയിൽ ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റ് പ്രവർത്തിക്കുന്നു ആദ്യം മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റ് കണക്കാക്കുക തുടർന്ന് മൊത്തത്തിലുള്ള എസ്റ്റിമേറ്റിന്റെ അനുപാതങ്ങൾ വ്യക്തിഗത ഘടകങ്ങൾക്ക് വിതരണം ചെയ്യുക അപ്പോൾ ശ്രമം അല്ലെങ്കിൽ ദൈർഘ്യം കണക്കാക്കുന്ന ഈ രീതിയെ ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റ് എന്ന് വിളിക്കുന്നു മറ്റൊരു ഉദാഹരണം ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ ആകെ പ്രോജക്റ്റ് ചെലവ് 500000 ആണെന്ന് കരുതുക പ്രോജക്റ്റ് ടോട്ടൽ ഡിസൈൻ കോഡിംഗ് ടെസ്റ്റിംഗ് ഡോക്യുമെന്റേഷൻ സിഡികൾ നിർമ്മിക്കൽ മുതലായവ മൊത്തം പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിലെ വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഘടകവും എത്ര ശതമാനം എടുക്കുമെന്ന് നിങ്ങൾ കണക്കാക്കേണ്ടതാണ് ഡിസൈൻ 20 ശതമാനവും പ്രോഗ്രാമിംഗ് 30 ശതമാനവും ടെസ്റ്റിംഗ് 40 ശതമാനവും ഡോക്യുമെന്റേഷൻ 5 ശതമാനവും സിഡി നിർമ്മിക്കുന്നതിന് 5 ശതമാനവും എടുക്കുമെന്ന് കരുതുക അതനുസരിച്ച് ഇത് നിങ്ങൾ കണക്കുകൂട്ടണം ഇത് പറയുന്നത് 500000 ന്റെ 20 ശതമാനം 100000 ആണ് ഇത് എന്തിനു നൽകും അത് ഡിസൈന് നൽകും അതുപോലെ 500000 ന്റെ 30 ശതമാനം ഒരുപക്ഷേ 1 5 ലക്ഷം ഇത് പ്രോഗ്രാമിംഗിന് നൽകും അതുപോലെ തന്നെ അനുപാതങ്ങൾ കണക്കാക്കുകയും വ്യത്യസ്ത ഘടകങ്ങൾക്ക് നൽകിയിട്ടുള്ള ശതമാനം കണക്കാക്കുകയും ചെയ്യുന്നു സമാനമായി രൂപകൽപ്പനയ്ക്ക് ഡി 1 ഡി 2 പോലുള്ള രണ്ട് തരം ഡിസൈൻ പറയാം ഡി 1 രൂപകൽപ്പനയും നിങ്ങളുടെ ഡാറ്റാബേസ് 10 10 10 ശതമാനം വീതവും രൂപകൽപ്പന ചെയ്യുന്നു അതിനാൽ നിങ്ങൾ 50000 വീതം നൽകണം സമാനമായി പ്രോഗ്രാമിന് രണ്ട് പ്രോഗ്രാ൦ ജിയുഐയ്ക്കുള്ള കോഡ് എഴുതാം ഇവിടെ മൂന്ന് പ്രോഗ്രാമിംഗുകൾ ഉണ്ടായിരിക്കാം ഈ ജിയുഐയ്ക്കുള്ള പ്രോഗ്രാമിംഗ് ഡാറ്റാബേസിനായുള്ള പ്രോഗ്രാമിംഗ് സാധാരണ കോഡിനായുള്ള പ്രോഗ്രാമിംഗ് എന്നിവ വീണ്ടും 20 ശതമാനം 5 ശതമാനം 5 ശതമാനം അതിനാൽ ആനുപാതികമായി കണക്കാക്കുന്നു ഡോക്യുമെന്റേഷന് രണ്ട് തരം സിഡി ഉണ്ട് എന്നാൽ ഒരെണ്ണം മാത്രം തയ്യാറാക്കുന്നു ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് വിഭജിക്കാം സമാന അനുപാതത്തിൽ യൂണിറ്റ് ടെസ്റ്റിംഗിലേക്ക് ഒരു വിഭജനം പരീക്ഷിക്കുന്നത് ടി 1 ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ടി 2 സിസ്റ്റം ടെസ്റ്റിംഗ് ടി 3 ആയിരിക്കാം ഈ ശതമാനം കണക്കുകൂട്ടുക ഓരോ ഘട്ടത്തിനും എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ ആണ് ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റ് പ്രവർത്തിക്കുന്നത് ടോപ്പ് ഡൌൺ സമീപനത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇത് സിസ്റ്റം ലെവൽ ആക്റ്റിവിറ്റികളായ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഡോക്യുമെന്റേഷൻ കോൺഫിഗറേഷൻ മാനേജുമെന്റ് തുടങ്ങിയവയാണ് അതിനാൽ ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റ് ഇന്റഗ്രേഷൻ ഡോക്യുമെന്റേഷൻ കോൺഫിഗറേഷൻ മാനേജുമെന്റ് മുതലായ വിവിധ സിസ്റ്റം ലെവൽ പ്രവർത്തനങ്ങളെ പരിഗണിക്കുന്നു ഇവയിൽ പലതും ചുവടെയുള്ള കണക്കാക്കൽ രീതികളിൽ അവഗണിക്കാം ബോട്ട൦ അപ് എസ്റ്റിമേറ്റിന്റെ ഒരു പോരായ്മ നമ്മൾ കാണും ഇത് സിസ്റ്റം ലെവൽ പ്രവർത്തനങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നതാണ് ഇതിന് കുറഞ്ഞ പ്രോജക്റ്റ് വിശദാംശങ്ങൾ ആവശ്യമാണ് അതിനാൽ ഈ ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റിന് ഇതിന് വളരെ കുറച്ച് പ്രോജക്റ്റ് വിശദാംശങ്ങൾ വളരെ കുറഞ്ഞ പ്രോജക്റ്റ് വിശദാംശങ്ങൾ ആവശ്യമാണ് ഇത് സാധാരണയായി വേഗത്തിലും നടപ്പിലാക്കാൻ എളുപ്പവുമാണ് ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റിന്റെ ഗുണങ്ങൾ ഇവയാണ് ടോപ്പ് ഡൌൺ എസ്റ്റിമേറ്റിന് ചില ദോഷങ്ങളുമുണ്ട് ഇത് ബുദ്ധിമുട്ടുള്ള താഴ്ന്ന നിലയിലുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുക്കുന്നില്ല ഇത് സിസ്റ്റം ലെവൽ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കണക്കിലെടുക്കുന്നു പക്ഷേ താഴ്ന്ന നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത് കണക്കിലെടുക്കുന്നില്ല താഴ്ന്ന നിലയിലുള്ള ഘടകങ്ങളുടെ സങ്കീർണ്ണതയെ ഇത് കുറച്ചുകാണുകയും അവഗണിക്കുകയും ചെയ്യുന്നു അവ കുറച്ചുകാണാനും അവഗണിക്കാനുമുള്ള പ്രവണത കണക്കിലെടുക്കുന്നു തീരുമാനങ്ങളോ എസ്റ്റിമേറ്റുകളോ ന്യായീകരിക്കുന്നതിനുള്ള വിശദമായ അടിസ്ഥാനങ്ങളൊന്നും ഇത് നൽകുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ എസ്റ്റിമേറ്റ് ചെയ്തത് തീരുമാനങ്ങളോ ന്യായീകരണത്തിനോ വിശദമായ അടിസ്ഥാനമൊന്നും ഇത് നൽകുന്നില്ല ബോട്ടം അപ്പ് എസ്റ്റിമേറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മിക്കവാറും പരമ്പരാഗത രീതിയിൽ കണക്കാക്കാൻ സോഫ്റ്റ്വെയർ ഗ്രൂപ്പിനെ ഇത് അനുവദിക്കുന്നു ഒരു പരമ്പരാഗത രീതിയിൽ സോഫ്റ്റ്വെയർ ഗ്രൂപ്പിനോ പ്രോജക്റ്റ് മാനേജർക്കോ വിവിധ പാരാമീറ്ററുകൾ കണക്കാക്കാൻ കഴിയും ഓരോ ഗ്രൂപ്പും മതിയായ അനുഭവമുള്ള ഘടകങ്ങൾ കണക്കാക്കുന്നു അതിനാൽ സോഫ്റ്റ്വെയർ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകൾ അവർക്ക് മതിയായ അനുഭവമുള്ള വ്യത്യസ്ത ഘടകങ്ങൾ കണക്കാക്കും ഇത് കൂടുതൽ സ്ഥിരതയുള്ളതാണ് കാരണം വിവിധ ഘടകങ്ങളിലെ കണക്കാക്കൽ പിശകുകൾ കൂടുതലോ കുറവോ ബാലൻസ് ഔട്ട് ചെയ്യുന്നു ഇത് വളരെ സ്ഥിരതയുള്ളതാണ് കാരണം വിവിധ ഘടകങ്ങളിലെ കണക്കാക്കൽ പിശകുകൾ അവ ഇതിനകം സന്തുലിതമാണ് സിസ്റ്റം ലെവൽ ചിലവിനെ അവഗണിച്ചേക്കാമെന്നതുപോലുള്ള നിരവധി പോരായ്മകൾ ബോട്ട൦ അപ്പ് എസ്റ്റിമേറ്റിനുണ്ട് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഡൌൺ സമീപനത്തിന്റെ ഗുണങ്ങൾ അത് സിസ്റ്റം ലെവൽ പ്രവർത്തനങ്ങൾ കണക്കിലെടുക്കുന്നു എന്നതാണ് എന്നാൽ ബോട്ടം അപ്പ് വിലയിരുത്തൽ സിസ്റ്റം ലെവൽ ചെലവുകളായ ഇന്റഗ്രേഷൻ കോൺഫിഗറേഷൻ മാനേജുമെന്റ് മുതലായവ ഗുണനിലവാര ഉറപ്പ് എന്നിവ അവഗണിച്ചേക്കാം ഈ സിസ്റ്റം ലെവൽ ചെലവിൽ ഉൾപ്പെടുന്ന ചെലവ് ഈ അടിത്തറ കണക്കാക്കൽ പ്രക്രിയ അവഗണിച്ചേക്കാം ഇത് കൃത്യതയില്ലാത്തതാകാം കാരണം ആവശ്യമായ വിവരങ്ങൾ ആദ്യ ഘട്ടത്തിൽ ലഭ്യമായേക്കില്ല പ്രാരംഭ ഘട്ടത്തിൽ ഒരു സിസ്റ്റം ആവശ്യകത വിശകലന ഘട്ടം അല്ലെങ്കിൽ ഈ ഡിസൈൻ ഘട്ടം പോലെയാകാം അതിനാൽ ആവശ്യമായ വിവരങ്ങൾ ലഭ്യമായേക്കില്ല ഈ ബോട്ടം അപ്പ് എസ്റ്റിമേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് കൃത്യമല്ലായിരിക്കാം ഇത് കൂടുതൽ സമയമെടുക്കുന്ന പ്രവണതയാണ് ബോട്ടം അപ്പ് കണക്കാക്കലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കൂടുതൽ സമയമെടുക്കുന്നു ഈ പ്രോജക്റ്റ് കണക്കാക്കലിനായി അൽഗോരിതം മോഡൽ എന്ന് വിളിക്കുന്ന മറ്റൊരു മോഡലിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ ഒരു നല്ല അൽഗോരിതം മോഡലിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം തുടർന്ന് ഈ അൽഗോരിതം മോഡലിനായുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും ആദ്യം പ്രോജക്റ്റ് എസ്റ്റിമേറ്റിനായി ഒരു അൽഗോരിതം മോഡൽ വികസിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വ്യക്തമായി നിർവചിക്കണം നടപടിക്രമം വളരെ വ്യക്തമായി നിർവചിക്കണം അത് കൃത്യമായിരിക്കണം അത് വസ്തുനിഷ്ഠമായിരിക്കണം അതായത് ആത്മനിഷ്ഠ ഘടകങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം അത് വസ്തുനിഷ്ഠ ഘടകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഫലങ്ങൾ മനസ്സിലാക്കാവുന്നതും സ്ഥിരതയുള്ളതുമായിരിക്കണം അതിനർത്ഥം ഫലങ്ങൾ ഒരു വലിയ ശ്രേണിയിലുള്ള പാരാമീറ്റർ മൂല്യങ്ങൾക്കായി സാധുതയുള്ളതായിരിക്കണം ചെറിയ അളവിലുള്ള പാരാമീറ്റർ മൂല്യങ്ങൾക്കല്ല അത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും ഇത് വളരെയധികം കാര്യകാരണമായിരിക്കണം അതായത് നിലവിലുള്ള ഡാറ്റ മാത്രം ഭാവി ഡാറ്റ ആവശ്യമില്ല വിവിധ പാരാമീറ്ററുകൾ കണക്കാക്കാൻ നിങ്ങൾക്ക് കഴിയണം ഒരു നല്ല അൽഗോരിതം മോഡലിന്റെ ചില മാനദണ്ഡങ്ങൾ ഇവയാണ് ഇപ്പോൾ അൽഗോരിതം മോഡലുകൾ എന്തായിരിക്കാമെന്ന് നോക്കാം പ്രോജക്റ്റ് ആസൂത്രണത്തിനായി റിപ്പോർട്ടും കാലാവധിയും എന്താണെന്ന് കണക്കാക്കേണ്ടതുണ്ട് ശ്രമത്തിന്റെ ദൈർഘ്യം നേരിട്ട് കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു പ്രോഗ്രാം വിവരണത്തിൽ നിന്ന് നേരിട്ട് പരിശ്രമം അല്ലെങ്കിൽ ചെലവ് അല്ലെങ്കിൽ ദൈർഘ്യം കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാലാണ് അവയുമായി പരസ്പര ബന്ധമുള്ള ചില പ്രോജക്റ്റ് സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പരിശ്രമവും ദൈർഘ്യവും അളക്കാൻ കഴിയുന്നത് ഉദാഹരണത്തിന് കോൾ വലുപ്പ൦ വലുപ്പം ഉപയോഗിച്ച് നമുക്ക് പരിശ്രമവും ദൈർഘ്യവും കണക്കാക്കാം ആദ്യം നമ്മൾ വലുപ്പം കണക്കാക്കണം വലുപ്പ എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് നമുക്ക് പരിശ്രമവും ദൈർഘ്യവും കണക്കാക്കാം സോഫ്റ്റ്വെയറിന്റെ വലുപ്പം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ പ്രോജക്ടിന്റെ വലുപ്പം എങ്ങനെ അളക്കും എസഎൽഓസി ഫംഗ്ഷൻ പോയിന്റ് എന്നീ രണ്ട് പാരാമീറ്ററുകൾ ഉപയോഗിച്ചേക്കാം എളുപ്പത്തിൽ അളക്കാവുന്നതും തീരുമാനിക്കുന്ന പ്രയത്നവുമായി പരസ്പര ബന്ധമുള്ളതുമായ സോഫ്റ്റ്വെയറിന്റെ ഏതൊരു സ്വഭാവവും എസഎൽഓസിയും ഫംഗ്ഷൻ പോയിന്റ് അല്ലെങ്കിൽ എഫ് പി പോലുള്ള അളവുകൾ ഉപയോഗിച്ച് ഏത് വലുപ്പവും അളക്കാം അൽഗോരിതം മോഡലുകൾ അല്ലെങ്കിൽ പാരാമെട്രിക് മോഡലുകൾ നോക്കാം അതിനാൽ രണ്ട് പ്രധാന ഉദാഹരണങ്ങൾ ഉണ്ട് ഒന്ന് ഈ ലൈൻസ ഓഫ് കോഡിന്റെ കൊക്കോമോ ആണ് പിന്നെ ഫംഗ്ഷൻ പോയിന്റു൦ എൽഓസി അടിസ്ഥാനമാക്കിയുള്ള മോഡൽ അല്ലെങ്കിൽ കൊക്കോമോ ഉള്ള ഒരു മോഡൽ നമുക്ക് നോക്കാം എൽഒസി അധിഷ്ഠിത മോഡലിലോ കൊക്കോമോയിലോ തുടക്കത്തിൽ ചില മൂല്യങ്ങൾ ഊഹിക്കുന്നു അൽഗോരിതം കണക്കാക്കുകയും എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് മൂല്യങ്ങൾ ഊഹിക്കുന്നതിൽ നിന്ന് ആരംഭിക്കാതെ തന്നെ സിസ്റ്റം സ്വഭാവസവിശേഷതകളിൽ നിന്ന് ആരംഭിക്കുന്ന മൂല്യങ്ങൾ കണക്കാക്കണം തുടർന്ന് നമുക്ക് അൽഗോരിതം പ്രയോഗിക്കാൻ കഴിയും അതിനാൽഎൽഓസി അധിഷ്ഠിത മോഡലുകളുടെയോ കൊക്കോമോസിന്റെയോ പ്രശ്നമാണിത് ഇത് മറികടക്കാൻ അൽഗോരിതം അല്ലെങ്കിൽ പാരാമെട്രിക് മോഡലുകൾ പ്രയോഗിച്ചേക്കാം അൽഗോരിതം രീതികളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആവർത്തിക്കാവുന്ന എസ്റ്റിമേറ്റുകൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയും നിങ്ങൾ ചില പാരാമീറ്ററുകൾക്കായി കണക്കാക്കിയാൽ നിങ്ങൾക്ക് ആവർത്തിക്കാവുന്ന എസ്റ്റിമേറ്റുകൾ സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇത് പ്രകൃതിയിൽ ആവർത്തിക്കപ്പെടുന്നത് അൽഗോരിതം രീതികൾ ഉപയോഗിച്ച് നിങ്ങൾ നേടുന്നുവെന്നത് കണക്കാക്കുന്നത് അവ ശരിയാക്കാൻ എളുപ്പമാണ് ഇൻപുട്ട് ഡാറ്റ പരിഷ്ക്കരിക്കാനും വ്യത്യസ്ത ഫോർമുല പരിഷ്ക്കരിക്കാനും ഇഷ്ടാനുസൃതമാക്കാനും അവ എളുപ്പമാണ് ഇത് കാര്യക്ഷമവും എസ്റ്റിമേറ്റുകളുടെ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ സെൻസിറ്റീവ് വിശകലനത്തെ പിന്തുണയ്ക്കാൻ പ്രാപ്തവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഇത് വളരെ അർത്ഥപൂർവ്വം കാലിബ്രേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് മുൻ അനുഭവത്തിലേക്ക് കാലിബ്രേഷൻ ചെയ്യാൻ കഴിയും അൽഗോരിതം രീതികളുടെ ചില പോരായ്മകളുണ്ട് അസാധാരണമായ അവസ്ഥകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള വിശദമായ മാർഗ്ഗങ്ങൾ ഇതിന് ഇല്ല അൽഗോരിതം രീതികൾ അസാധാരണമായ ടീം വർക്ക് നൈപുണ്യ നിലവാരവും ടാസ്ക് മുതലായവയും തമ്മിലുള്ള അസാധാരണമായ പൊരുത്തം പോലുള്ള ചില അസാധാരണമായ അവസ്ഥകളെ കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ ഈ അസാധാരണമായ അവസ്ഥകൾക്ക് എളുപ്പത്തിൽ ക്ഷമിക്കാൻ കഴിയും ഈ അൽഗോരിതം രീതികൾ ഉപയോഗിച്ചുകൊണ്ട് അവ കൈകാര്യം ചെയ്യാൻ കഴിയില്ല വലുപ്പത്തിലുള്ള ഇൻപുട്ടുകളും കൃത്യമല്ലാത്ത കോസ്റ്റ് ഡ്രൈവർ റേറ്റിംഗും തെറ്റായ കണക്കാക്കലിന് കാരണമാകും അനുഭവം പോലുള്ള ചില ഘടകങ്ങൾ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയില്ല നിങ്ങൾ അൽഗോരിതം രീതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ കോഡറിന്റെ അനുഭവം അല്ലെങ്കിൽ ചില ടെസ്റ്ററിന്റെ അനുഭവം പോലുള്ള ഘടകങ്ങൾ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയില്ല ഇവിടെയുള്ള ഒരു നേട്ടം അൽഗോരിതം രീതികൾ മുമ്പത്തെ അനുഭവത്തിലേക്ക് അവ അർത്ഥവത്തായ അളവെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അൽഗോരിതം രീതികൾ ഉപയോഗിച്ച് മുമ്പത്തെ അനുഭവങ്ങളിലേക്ക് കാലിബ്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനാൽ കാലിബ്രേഷൻ മോഡൽ കാലിബ്രേഷൻ നമുക്ക് നോക്കാം നിരവധി മോഡലുകൾ നിർദ്ദിഷ്ട സാഹചര്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിർവചനം അനുസരിച്ച് ആ സാഹചര്യത്തിലേക്ക് കാലിബ്രേറ്റ് ചെയ്യുന്നു അവ സാമാന്യവൽക്കരിക്കപ്പെടുന്നില്ല അത്തരം മോഡലുകൾ സാധാരണയായി ആ പ്രത്യേക പരിതസ്ഥിതിക്ക് പുറത്ത് ഉപയോഗപ്രദമല്ല ഈ മോഡലുകൾ നിർദ്ദിഷ്ട സാഹചര്യത്തിന് അനുയോജ്യമായവയായിരിക്കും പ്രത്യേക പരിതസ്ഥിതിക്ക് പുറത്ത് അവ ഉപയോഗപ്രദമാകില്ല ഈ പൊതു മോഡലുകളിലൊന്നിന്റെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിന് കാലിബ്രേഷൻ ആവശ്യമാണ് അതിനാൽ കാലിബ്രേഷൻ ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട് ഒരു സാധാരണ മോഡൽ ഇഷ്ടാനുസൃതമാക്കുന്ന ഒരു അർത്ഥമാണ് കാലിബ്രേഷൻ ഒരു ജനറിക് മോഡൽ ഉണ്ട് അത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടാനുസൃതമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ കാലിബ്രേഷൻ ഒരു അർത്ഥത്തിൽ ഒരു പൊതു മോഡൽ ഇഷ്ടാനുസൃതമാക്കുന്നു ഒരു മോഡലിൽ കാലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇനങ്ങൾ ഉൾപ്പെടുന്നു ഒരു മോഡലിൽ ഏത് ഇനങ്ങളാണ് കാലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് പറയാം പ്രോഡക്റ്റ്ടൈപ്പ് കാലിബ്രേറ്റ് ചെയ്യാം ഓപ്പറേറ്റിങ് പരിതസ്ഥിതികൾ കാലിബ്രേറ്റ് ചെയ്യാം അതുപോലെ കാലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റ് ഇനങ്ങൾ തൊഴിൽ നിരക്കും ഘടകങ്ങളും പ്രവർത്തന ചെലവ് ഇനങ്ങൾ തമ്മിലുള്ള വിവിധ ബന്ധങ്ങൾ തുടങ്ങിയവയാണ് ഇനി കാലിബ്രേഷനായി ചില ശുപാർശകൾ എന്തെല്ലാം എന്ന് നോക്കാം ഈ എസ്റ്റിമേറ്റ് മോഡലുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ചില ശുപാർശകൾ ആശ്രയിക്കരുത് ഒരൊറ്റ ചെലവ് അല്ലെങ്കിൽ ഷെഡ്യൂൾ എസ്റ്റിമേറ്റിനെ ആശ്രയിക്കരുത് വിവിധ രീതിശാസ്ത്രങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടു ഇതുവരെ ടോപ്പ് ഡൌൺ ബോട്ടം അപ്പ് അൽഗോരിതം പിന്നെ ഈ വിധി അടിസ്ഥാനമാക്കിയുള്ള വിലനിർണ്ണയം ചിലപ്പോൾ നിങ്ങൾ ഒരൊറ്റ എസ്റ്റിമേറ്റോ ഒറ്റ സാങ്കേതികതയോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റായ ഫലം നൽകിയേക്കാം ഒരൊറ്റ എസ്റ്റിമേറ്റ് ടെക്നിക് അല്ലെങ്കിൽ ഒരൊറ്റ മോഡൽ ഉപയോഗിക്കുന്നതിനുപകരം നിങ്ങൾക്ക് വ്യത്യസ്തമോ നിരവധി എസ്റ്റിമേറ്റിംഗ് ടെക്നിക്കുകളോ കോസ്റ്റ് മോഡലോ ഉപയോഗിക്കാം അതിനാൽ ഫലം വളരെ കൃത്യമായിരിക്കാം എസ്റ്റിമേറ്റിനായി നിങ്ങൾ വ്യത്യസ്ത എസ്റ്റിമേറ്റ് ടെക്നിക്കുകളോ മോഡലുകളോ ഉപയോഗിക്കുകയാണെങ്കിൽ പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിനോ കണക്കാക്കുന്നതിനോ വ്യത്യസ്ത ടെക്നിക്കുകളും മോഡലുകളും പ്രയോഗിച്ചതിന് ശേഷം ഫലങ്ങൾ താരതമ്യം ചെയ്ത് വലിയ വ്യതിയാനങ്ങളുടെ കാരണങ്ങൾ നിർണ്ണയിക്കാം അതിനാൽ ഏത് രീതി ഉപയോഗിച്ചാലും അവ വളരെ അടുത്ത ഫലങ്ങൾ നൽകണം ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകാം എന്തുകൊണ്ടാണ് ഈ വലിയ വ്യതിയാനങ്ങൾ വരുന്നതെന്ന് നിങ്ങൾക്ക് വിശകലനം ചെയ്യാം നിങ്ങൾ അവ രേഖപ്പെടുത്തുകയും എസ്റ്റിമേറ്റ് നടത്തുമ്പോൾ നടത്തിയ അനുമാനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക അതേസമയം നിങ്ങൾ മതിപ്പുപോലെ വ്യത്യസ്ത വിദ്യകൾ അല്ലെങ്കിൽ മോഡലുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത അനുമാനങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് വ്യത്യസ്ത അനുമാനങ്ങൾ എടുക്കാം എന്നാൽ നിങ്ങൾ എന്ത് അനുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും എസ്റ്റിമേറ്റുകൾ നടത്തുമ്പോൾ നിങ്ങൾ സ്വീകരിച്ച എല്ലാ അനുമാനങ്ങളും രേഖപ്പെടുത്തണം തെറ്റായതായി മാറിയ അനുമാനങ്ങൾ എസ്റ്റിമേറ്റിന്റെ കൃത്യതയെ അപകടത്തിലാക്കുമ്പോൾ കണ്ടെത്താനുള്ള പ്രോജക്റ്റ് നിരീക്ഷിക്കുക ചിലപ്പോൾ തെറ്റായ അനുമാനങ്ങൾ നിങ്ങളുടെ കൃത്യത നിങ്ങളുടെ കണക്ക് അത് കൃത്യത കുറഞ്ഞതായി മാറുന്നു അത് തെറ്റായി മാറുന്നു അനുമാനങ്ങൾ തെറ്റായി മാറുമ്പോൾ കണ്ടെത്തുന്നതിനുള്ള പ്രോജക്റ്റ് നിരീക്ഷിക്കുക തുടർന്ന് സോഫ്റ്റ്വെയർ പ്രോസസ്സ്മെച്ചപ്പെടുത്തുക എസ്റ്റിമേറ്റുകൾ വിശകലനം ചെയ്യുക ഈ അനുമാനങ്ങൾ കാരണം നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ എസ്റ്റിമേറ്റുകൾ ലഭിക്കുന്നു നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ പ്രക്രിയ മെച്ചപ്പെടുത്താം അതിനാൽ എങ്ങനെ ചരിത്രപരമായ ഒരു ഡാറ്റാബേസ് പരിപാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ പ്രക്രിയയും സോഫ്റ്റ്വെയർ പ്രോസസ്സ് മെച്ചപ്പെടുത്താനും കഴിയും കഴിഞ്ഞ പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നു പ്രോജക്റ്റ് എസ്റ്റിമേറ്റുകൾ നടപ്പിലാക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന നിലയിൽ നിങ്ങൾ പാലിച്ചേക്കാവുന്ന ചില ശുപാർശകൾ ഇവയാണ് ഇനി നമുക്ക് ഇത് ലളിതമായ മാതൃക എന്ന ആശയം എടുക്കാം ഇത് അനുസരിച്ച് വളരെ ലളിതമായ ഒരു മോഡൽ ഈ മോഡൽ അനുസരിച്ച് ശ്രമം ഇനിപ്പറയുന്നതായി കണക്കാക്കുന്നു ഈ ശ്രമം സിസ്റ്റം വലുപ്പത്തിന് ഉൽപാദനക്ഷമതയും നേരായ സൂത്രവാക്യവും കൊണ്ട് വിഭജിക്കപ്പെടുന്നു കണക്കാക്കിയ ശ്രമം സിസ്റ്റം വലുപ്പം ഉൽപാദനക്ഷമത സിസ്റ്റം വലുപ്പം ചില ലൈൻസ് ഓഫ് കോഡും ഉൽപാദനക്ഷമത പ്രതിദിനം ചില ലൈൻസ് ഓഫ് കോഡുമാണെങ്കിൽ ഈ സമവാക്യത്തിൽ നിന്നുള്ള ഉൽപാദനക്ഷമത എത്രത്തോളം തുല്യമാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും സിസ്റ്റം വലുപ്പം പരിശ്രമത്താൽ വിഭജിച്ചിരിക്കുന്നു ഉൽപാദനക്ഷമത സിസ്റ്റം വലുപ്പം പരിശ്രമം അതിനാൽ ഇവിടെ ഈ സൂത്രവാക്യം മുൻകാല പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷേ ലളിതമായ മോഡലിൽ എന്താണ് തെറ്റ് എന്ന് ചിന്തിക്കുക ഏത് സാഹചര്യങ്ങളിൽ ഇത് പരാജയപ്പെടും അതിനാൽ ദയവായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം ഈ പരിശ്രമവും കാലാവധിയും എന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിനുള്ള പരിശ്രമവും ഈ കാലയളവും കണക്കാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു 38000 വരികളുള്ള ഒരു ഇടപാട് പ്രോജക്റ്റ് പരിഗണിക്കുക എന്ന് ഈ ഉദാഹരണം പറയുന്നു അതിനാൽ ഈ ഇടപാട് പ്രോജക്റ്റിൽ 38000 വരികളുടെ കോഡ് അടങ്ങിയിരിക്കുന്നു ഈ പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ സമയം ഏതെന്ന് നമ്മൾ കണ്ടെത്തണം ഇവിടെ ഉൽപാദനക്ഷമത ഒരു സ്റ്റാഫ് മാസത്തിൽ ഏകദേശം 4000 എസ്എൽഓസി ആണെന്നും നൽകിയിരിക്കുന്നു ഒരു സ്റ്റാഫ് പ്രതിമാസം 400 എസ്എൽഓസി യുടെ അടിസ്ഥാനത്തിലാണ് ഉൽപാദനക്ഷമത നൽകുന്നത് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യണം ശ്രമത്തിന്റെ സൂത്രവാക്യം ഞാൻ നേരത്തെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഉൽപാദനക്ഷമതയെ അടിസ്ഥാനമാക്കി സിസ്റ്റം വലുപ്പമായി പരിശ്രമം കണക്കാക്കാം അല്ലെങ്കിൽ ഉൽപാദനക്ഷമത വലുപ്പത്തിന് ഉൽപാദനക്ഷമതയാൽ പവർ മൈനസ് 1 അല്ലെങ്കിൽ 1 ന് ഉൽപാദനക്ഷമതയ്ക്ക് തുല്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഉൽപാദനക്ഷമത ഇത് 1 ന് തുല്യമാണ് ഉൽപാദനക്ഷമത 400 എൽഓസി അല്ലെങ്കിൽ കെഎൽഓസി വിഭജിച്ചിരിക്കുന്നു ഓരോ സ്റ്റാഫ് മാസത്തിലും 1 മുതൽ 0 400 കെഎസ്എൽഓസി വരെ വലുപ്പത്തിലേക്ക് വലുപ്പം എത്രമാത്രം തുല്യമാണ് വലുപ്പം 38 തുല്യ 38000 കോഡുകളുടെ തുല്യമാണ് അതിനർത്ഥം 38 കെഎസ്എൽഓസി അതിനാൽ ഇത് 2 5 മുതൽ 38 വരെ ഏകദേശം തുല്യമാണ് പദ്ധതി വികസിപ്പിക്കുന്നതിന് 100 സ്റ്റാഫ് മാസങ്ങൾ ആവശ്യമാണ് ഇവിടെ കണക്കാക്കിയ ശ്രമം 100 സ്റ്റാഫ് മാസമായി വരുന്നു ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം ആവശ്യമാണ് അത് കണ്ടെത്തുന്നതിന് തുല്യമാണ് ഇത് 0 75 ടിക്ക് തുല്യവും ഇവിടെ 0 75 നും ടി യ്ക്കും തുല്യമായിരിക്കും ഈ ശ്രമമാണ് 0 7 ഉം 2 5 ഉം ആയി നമുക്ക് ലഭിച്ചത് 1 മുതൽ 400 വരെ അതിനാൽ ഇത് Q 1 ന്റെ പവർ 1 ന് 0 75 മുതൽ 2 5 SM വരെ തുല്യമാണ് ഇത് 1 875 ആയി മാറുകയും ലളിതവൽക്കരണം ഏകദേശം 9 മാസമാകുകയും ചെയ്യുന്നു അതിനാൽ 38 000 ലൈനുകൾ അല്ലെങ്കിൽ 38 കെഎസ്എൽഒസിയും 400 എസ്എൽഒസിയുടെ ഉൽപാദനക്ഷമതയും ഉള്ള ഈ ഇടപാട് പ്രോജക്റ്റിന് സ്റ്റാഫ് മാസത്തിൽ ലഭിക്കുന്നു ഈ ശ്രമം 100 സ്റ്റാഫ് മാസമായും ഏറ്റവും കുറഞ്ഞ സമയം 9 മാസമായും കണക്കാക്കുന്നു സമാനമായ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്നു ലഭിക്കും ദയവായി അവ പരിഹരിക്കാൻ ശ്രമിക്കുക കൂടാതെ അവ പരിഹരിക്കാവുന്ന ചില എക്സെർസൈസും അതിനാൽ ഇത്തരം ചെറിയ എക്സെർസൈസ് അസൈൻമെന്റുകളിലും പരീക്ഷയിലും ചോദിച്ചേക്കാം അവസാനമായി ചില വ്യത്യസ്ത തരം എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ ചർച്ച ചെയ്തു ഈ ക്ലാസ്സിൽ നമ്മൾ കണ്ട ടോപ്പ് ഡൌൺ ടെസ്റ്റിംഗ് ബോട്ട൦ അപ് എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ ടോപ്പ് ഡൌൺ സമീപനങ്ങൾ എന്നിവയും താരതമ്യം ചെയ്തു ടോപ് ഡൌൺ കൂടാതെ ബോട്ടം അപ്പ് എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ ചിത്രീകരിക്കുന്നതിന് നമ്മൾ ചില ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട് പ്രോജക്റ്റ് എസ്റ്റിമേറ്റിനായുള്ള അൽഗോരിതം മോഡൽ അല്ലെങ്കിൽ പാരാമെട്രിക് മോഡൽ എന്നിവയും ചർച്ചചെയ്തു അൽഗോരിതം അല്ലെങ്കിൽ പാരാമെട്രിക് മോഡലുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും കണ്ടു തുടർന്ന് പ്രോജക്റ്റ് കണക്കാക്കലിനായി ലളിതമായ ഒരു മാതൃക ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമവും സമയവും കണക്കാക്കുന്നതിനും പ്രോജക്റ്റ് എസ്റ്റിമേറ്റിനായുള്ള ഈ ലളിതമായ മാതൃകയ്ക്കും ഒരു ഉദാഹരണം എടുത്തിട്ടുണ്ട് പ്രോജക്റ്റ് കണക്കാക്കുന്നതിനുള്ള സാങ്കേതികതകളുടെ മറ്റൊരു വർഗ്ഗീകരണമാണിത് അടുത്ത ക്ലാസിൽ വലിപ്പം അനുമാനം ലഭിക്കുന്നതിന് മറ്റൊരു മെട്രികിനെ കുറിച്ച് ചർച്ച ചെയ്യും അതാണ് ഫങ്ങ്ഷൻ പോയിന്റ് ഇവയാണ് റഫറൻസുകൾ നമുക്ക് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ ഈ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് ടെക്നിക്കുകളുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യാം വളരെയധികം നന്ദി